ഇനി നമുക്ക് 2D എഡ്ജ് ബേസ്ഡ് മെത്തേഡ് ന്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം ഇതുവരെ നമ്മൾ നോക്കിയത് ഷേപ്പ് ഫങ്ക്ഷൻസ് വീക് ഫോം ബൌണ്ടറി കണ്ടിഷൻസ് ടോട്ടൽ ഫീൽഡ് ഫോർമുലേഷൻ സ്കാറ്റെർഡ് ഫീൽഡ് ഫോർമുലേഷൻ എന്നിവയെ കുറിച്ചാണ് ഇതെല്ലാം സിസ്റ്റം ഓഫ് ഇക്വേഷൻസിലേക്ക് എങ്ങനെ ഒരുമിച്ചു കൊണ്ടുവരും എന്നതാണ് നമുക്ക് അവസാനമായി നോക്കേണ്ടത് Axb ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റണം അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഒരുമിച്ചു കൊണ്ടു വരാൻ ശ്രമിക്കാം ID FEM ന്റെ കേസിൽ നമ്മൾ ചെയ്തത് പോലെ തന്നെയാണ് ഇനിയും ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ ഒരു ലൈൻ എടുത്തു അതിനെ കട്ട് ചെയ്തു എലമെന്റ്സ് ആക്കി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ടാക്കി നമുക്ക് അതിലേക്ക് കടക്കാം മിനിമം ബിൽഡിംഗ് യൂണിറ്റ് നെ കുറിച്ച് പറഞ്ഞാൽ അത് രണ്ട് എലമെന്റ്സ് ആയിരിക്കും കാരണം ഒരു എഡ്ജ് ബൌണ്ടറി യിൽ ആണെങ്കിൽ ഒഴികെ എപ്പോഴും 2 എലമെന്റ്സ് പങ്കിട്ടെടുക്കും നമുക്ക് അത് വരക്കാം ഇതാണ് രണ്ട് അടുത്തടുത്തുള്ള എലെമെന്റസ് ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യംപൊതുവെ FEM എന്നത് ഗ്ലോബൽ നോഡ്സും ലോക്കൽ നോഡ്സും തമ്മിൽ ഉള്ള മാപ്പിങ് ആണ് എന്നതാണ് എഡ്ജസിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് ഇത് ഒരു എഡ്ജ് ബേസ്ഡ് FEM ആണ് ഇനി നിങ്ങൾ ലോക്കൽ എഡ്ജ് നമ്പറിങ്ങിൽ നിന്ന് ഗ്ലോബൽ എഡ്ജ് നമ്പറിലേക്ക് പോകാൻ അനുവദിക്കുന്ന ഒരു ടേബിൾ എടുത്ത് വെക്കണം ഇത് രണ്ടിനും വെവ്വേറെ നിറം കൊടുക്കണം പച്ച നിറം ലോക്കൽ ന് കൊടുക്കാം ഇതാണ് രണ്ടു എലമെന്റ്സ് ഇതിനെ എലമെന്റ് aഎന്നും എലമെന്റ് bഎന്നും വിളിക്കാം ഈ ഓരോ തൃക്കോണത്തിനും മൂന്ന് നോഡ്സ്ഉണ്ട് അവിടെ ചില ലോക്കൽ നമ്പേഴ്സ്ഉണ്ടാവും അങ്ങനെ നോഡ്സ് ന്റെ ലോക്കൽ നമ്പേഴ്സ്ഉദാഹരണം ആയി 0 1 2 ഇങ്ങനെ ആവും 0 1 2 ലോക്കൽ നോഡ്സ് ആണെന്ന് പറയാം എതാണ് 0 ഏതാണ് 1 ഏതാണ് 2 എന്ന് എന്താണ് തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കാം എങ്ങനെയാണ് ഞാൻ അത് തീരുമാനിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം പക്ഷെ പ്രയോഗികമായിഅങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല ഡോമെയിൻ നെ മെഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നോഡ്സ് ന്റെ ഒരു പട്ടിക തരും അത് ഒരു ക്രമത്തിൽ ആയിരിക്കും അപ്പോൾ ആദ്യത്തേത് 0 ആയും രണ്ടാമത്തേത് 1 ആയും മൂന്നാമത്തേത് 2 ആയും തിരഞ്ഞെടുക്കാം ഇതാണ് CAD സോഫ്റ്റ്വെയർ ൽ നിന്ന് കിട്ടുന്നത് ഇതിൽ രഹസ്യം ഒന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റീമാപ് ചെയ്യാം മെഷീൻ സോഫ്റ്റ്വെയർ ഘടികാരദിശയിൽ ഉള്ള ഒരു കൺവെൻഷൻ ആണ് പിന്തുടരാൻ ശ്രമിക്കുന്നത് പക്ഷെ ക്ലോക്കിൽ എവിടുന്നാണ് നിങ്ങൾ തുടങ്ങുന്നതെന്ന് പറയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആറുമണിക്ക് തുടങ്ങാം 12 മണിക്ക് തുടങ്ങാം 9 മണിക്ക് തുടങ്ങാം ചിലപ്പോൾ ഇത് കൺവെൻഷണൽ ലംഘിക്കാം അതുകൊണ്ട് നമ്മൾ ഒരു പ്രത്യേക കൺവെൻഷൻ ആശ്രയിക്കരുത് നമുക്ക് 3 നോഡ്സ് വേണം എന്നേയുള്ളൂ ലോക്കൽ നോഡ് നമ്പേഴ്സ് നോട് ബന്ധപ്പെട്ട ഗ്ലോബൽ നോഡ് നമ്പേഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് എനിക്ക് തീരുമാനിക്കാം നോഡ്സ് ആവർത്തിക്കുന്നത് കണ്ടാൽ ഒരു പുതിയ നമ്പർ കൊടുക്കേണ്ടത് ഇല്ലല്ലോ ഞാൻ എഴുതേണ്ട കോഡിന്റെ ഒരു ഭാഗമാണ് അത് നമുക്കിതിനെ ഗ്ലോബൽ നോഡ് നമ്പർ 1 ഗ്ലോബൽ നോഡ് നമ്പർ 2 ഗ്ലോബൽ നോഡ് നമ്പർ 3 എന്ന് വിളിക്കാം വിദ്യാർത്ഥി സ്ഥാനം CAD ഫൈലിൽ നിന്ന് വായിച്ചപ്പോൾ അവിടെ നിന്നും എനിക്ക് എലമെന്റ് a എലമെന്റ് b പിന്നെ ഇത് രണ്ടിന്റെയും നോഡ്സും കിട്ടി പക്ഷെ രണ്ടു നോഡ്സ് ഒരേ പോലെയാണ് അതുകൊണ്ട് ഗ്ലോബൽ നമ്പറിങ് ചെയ്യുമ്പോൾ രണ്ടുതവണ എണ്ണേണ്ട ആവശ്യമില്ല നോഡ്സിനെ അടിസ്ഥാനമാക്കിയുള്ള FEM ആണ് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ നിർത്തും എന്നാൽ നമ്മൾ നൊഡ് നെ അടിസ്ഥാനമാക്കിയല്ല ചെയ്യുന്നത് എഡ്ജ്നെ അടിസ്ഥാനമാക്കിയുള്ള FEM ആണ് അതുകൊണ്ട് അടുത്തതായി നമ്മൾ കണക്കിലെടുക്കേണ്ടത് എഡ്ജസ് ആണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരുപാട് കൺവെൻഷൻസ് ഉണ്ട് ഒരു കൺവെൻഷൻ ചെറിയ ലോക്കൽ നോഡ് നമ്പറിൽ നിന്നും വലിയ ലോക്കൽ നോഡ് നമ്പർ ലേക്കാണ് ഉദാഹരണമായി ഇവയെ ലോക്കൽ എഡ്ജ് നമ്പർ 0 ലോക്കൽ എഡ്ജ് നമ്പർ 1 ലോക്കൽ എഡ്ജ് നമ്പർ 2 എന്ന് വിളിക്കാം ഇത് എങ്ങനെ നിർവചിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ നിങ്ങൾ ഇത് കോഡ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് കുറച്ചു യുക്തി ആവശ്യമാണ് വിദ്യാർത്ഥി നിങ്ങൾക്ക് എല്ലാ തുടർച്ച ഇക്വേഷൻസും ചെയ്യാനാകുമോ എങ്ങനെ ആണ് തുടർച്ച ഇക്വേഷൻസ് പരിഹരിക്കുക എന്ന് നിങ്ങൾക്ക് സംശയം വരും നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ലോക്കൽ നോഡ് നമ്പറുകൾ ലോക്കൽ എഡ്ജ് നമ്പറുകൾ എഡ്ജ് നമ്പറിനെ സമാനതയില്ലാത്തതാക്കാൻ അവിടെ ഒരു 1to1 മാപ്പിങ് ഉണ്ട് രണ്ടാമത്തെയും നാലാമത്തെയും നോഡ്സിന്റെ ഇടയിലെ എഡ്ജ് ന് വിപരീതദിശയിലാണ് വെക്ടർസ് എന്ന് തോന്നും പക്ഷേ ഈ ലോക്കൽ നെയും ഗ്ലോബൽ നെയും ശ്രദ്ധിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ പറ്റും എങ്ങനെ ആണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ലോക്കൽ എഡ്ജസ് പരിഹരിക്കാം പിന്നെ അവശേഷിക്കുന്നത് ഗ്ലോബൽ എഡ്ജസ്ആണ് എഡ്ജസിനു ഒരു പ്രത്യേകത ആവശ്യമാണ് അതുകൊണ്ട് ഇതാണ് എഡ്ജ് നമ്പർ 1 ഇതാണ് എഡ്ജ് നമ്പർ 2 ഇതാണ് എഡ്ജ് നമ്പർ 3 ഇവിടെയാണ് എഡ്ജ് നമ്പർ4 അവസാനമായി ഇതാണ് എഡ്ജ് നമ്പർ 5 എന്ന് എനിക്ക് പറയാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ എഴുതാം ഇവയാണ്ഗ്ലോബൽ ലോക്കൽ എഡ്ജസ് ന് ഒരു കൺവെൻഷൻ ഉള്ളത്പോലെ ഗ്ലോബൽ എഡ്ജ് പോയിന്റ് ചെയ്യുന്ന ദിശയിൽ ഒരു കൺവെൻഷൻ ഉണ്ട് അത് കൊണ്ട് ഗ്ലോബൽ എഡ്ജ് നമ്പർ ഒന്ന് ചെറിയ ഗ്ലോബൽ നോഡ് നമ്പർമുതൽ വലിയ ഗ്ലോബൽ നോഡ് നമ്പർ വരെ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും ഉദാഹരമായി ഈ എഡ്ജനെ ഇതിലേക്ക് പോയിന്റ് ചെയ്യുന്ന വിധത്തിൽ നിയോഗിക്കാം അതിനെ ഈ വഴിയും അങ്ങനെ എല്ലാ എഡ്ജും ചെയ്യാം എഡ്ജ് 5 നെ രണ്ട് തൊട്ട് 4 വരെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം കോമൺ എഡ്ജിൽ കോമൺ edge ഗ്ലോബൽ എഡ്ജും ലോക്കൽ എഡ്ജുംദിശയിൽ വ്യത്യാസം ആയാൽ ഇക്വേഷൻസിൽ ഒരു മൈനസ് സൈൻ ഇടണം കാരണം കൺവെൻഷൻ ഞാൻ എടുത്തത് കൺവെൻഷൻ എഡ്ജ് പോയിന്റ്ചെയ്യുന്നത് ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പറിലേക്കാണ് അതിനാൽ ഈ എഡ്ജ് നമ്പർ 4 പോയിന്റ് ചെയ്യുന്നത് ഗ്ലോബൽനോഡ് നമ്പർ 1 ൽ നിന്ന് ഗ്ലോബൽ നോഡ് നമ്പർ 4ലേക്കാണ് ദിശ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പറിലേക്കാണ് വിദ്യാർത്ഥി 2 മുതൽ പൂജ്യം വരെ 1 അപ്രത്യക്ഷമവും അല്ലെ ഗ്ലോബൽ നോഡ്സ് ന്റെ കാര്യത്തിൽ പൂജ്യം ഉണ്ടാവില്ല വിദ്യാർത്ഥി ok ഈ ഭാഗം മനസ്സിലായില്ലെ കോഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം അവിടെ ഒരു ഗ്ലോബൽ കൺവെൻഷൻ ന്റെ ഒരു സെറ്റ് ഉണ്ടാവും ലോക്കൽ കൺവെൻഷൻ ന്റെ ഒരു സെറ്റ് ഉണ്ടാവും പിന്നെ 1 to 1 മാപ്പിങ് ഉം ഇവിടെ ഉണ്ടാവും അപ്പോൾ എഡ്ജ് 5 പോയിന്റ് ചെയ്യുന്നത് 2 ൽ നിന്ന് 4 ലേക്കാണ് ഗ്ലോബൽ എഡ്ജസ് നെ പറ്റി സംസാരിക്കുമ്പോൾ കൺവെൻഷൻ വരുന്നത് ഗ്ലോബൽ നോഡ് നമ്പറിൽ നിന്നാണ് ലോക്കൽ എഡ്ജ് ന്റെ കാര്യത്തിൽ കൺവെൻഷൻ വരുന്നത് ലോക്കൽ നോഡ് നമ്പറിൽ നിന്നാണ് ഇന്റഗ്രൽ ഇക്വേഷൻ മെത്തേഡ് ചെയ്തപ്പോൾ ഇതിനെ പറ്റിയൊന്നും അധികം ചിന്ദിക്കേണ്ട കാര്യം ഉണ്ടായില്ല പക്ഷെ ഇവിടെ ഇത് പ്രധാനം ആണ് ഇത്രയും സമയം നമ്മൾ ബൌണ്ടറി കണ്ടിഷൻസ് ലേക്കും ടോട്ടൽ ഫീൽസ് വേഴ്സസ് സ്കാറ്റെർഡ് ഫീൽഡ് ഫോർമുലേഷൻ ലേക്കും നോക്കിയപ്പോൾ വലതു വശത്തിനാണ് പ്രാധാന്യം കൊടുത്തത് പക്ഷെ ഇപ്പോൾ നമ്മൾ ഇടതു വശം കൂടി പരിഗണിക്കണം ഇടതുവശം പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെയാണ് എലമെന്റ് a എടുത്താലും എലമെന്റ് b എടുത്താലും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാനിതിനെ എളുപ്പവഴിയിൽ എഴുതുകയാണ് അപ്പോൾ ഒരു എടുത്താൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടാനുള്ള FEM പ്രൊസീജ്വർ എന്തായിരിക്കും തല്ക്കാലം ഇവിടെ രണ്ട് എലമെന്റ്സ്ന്റെ ഉദാഹരണത്തിൽ നോക്കാം അതായത് എന്റെ മെഷ്രണ്ട് എലമെന്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് വിചാരിച്ചാൽ എത്ര എഡ്ജസ് edges എനിക്ക് ഉണ്ടാവും അതെ 5 എഡ്ജസ് എനിക്ക് ഓരോ എഡ്ജസന്റെയും ടെസ്റ്റിംഗ് ഫങ്ക്ഷന് ചെയ്യാൻ കഴിയും ഓരോഎഡ്ജസിനെയും അനുബന്ധിക്കുന്ന ഷേപ്പ് ഫങ്ക്ഷനും അപ്പോൾ 5 വാരിയബ്ൾസ് ആയി 5 ഇക്വേഷൻസ് കിട്ടും അത് പൊതുവായ നടപടിക്രമം ആയിരിക്കും എഡ്ജ് നമ്പർ 5 ഉപയോഗിച് ടെസ്റ്റിംഗ് ചെയ്ത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കണ്ടെത്താൻ ശ്രമിക്കാം അതായത് ഗ്ലോബൽ എഡ്ജ് നമ്പർ 5 ഉപയോഗിച്ച് എഡ്ജ് നമ്പർ 5 ഷെയർ ചെയ്യാനുള്ള കാരണം എടുത്തതാണ് ഇത് രണ്ട് എലമെൻസ് നും പൊതുവായത് കാരണം കൂടുതൽ രസമാണ് ഇനി ID കേസിലെ പോലെ അടിസ്ഥാന പ്രവർത്തനം ഒരു എലമെന്റ് ന്റേത് മാത്രമാണോ അഥവാ രണ്ടു എലമെന്റ് ന്റെതായ ഏന്തെങ്കിലും ലീനിയർ കോമ്പിനേഷൻ ന്റേതാണോ എന്നുള്ള ഒരു ചോയ്സ് എനിക്ക് ഉണ്ടായിരുന്നു ഇവിടെയും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത് എന്റെ ടെസ്റ്റിംഗ് ഫങ്ക്ഷൻ എലമെന്റ് a ക്കും b ക്കും അനുബന്ധം ആയ അടിസ്ഥാന ഫങ്ക്ഷൻസ് ന്റെ ആകെത്തുക ആയിരിക്കും ഇത് ID യിൽ ഞാൻ ചെയ്ത ത്രികോണ ഫങ്ക്ഷൻ പോലെ ആണ് അത്കൊണ്ട് എലമെന്റ് a യിലും b യിലും ഇത് നോൺ സീറോ ആയിരിക്കും എനിക്ക് ഇപ്പോൾ കൺവെൻഷൻ ഉപയോഗിക്കണം എന്ന് വിചാരിക്കുക അപ്പോൾ ഏതിൽ പെടും എലമെന്റ് aആണെങ്കിൽ ലോക്കൽ എഡ്ജ് നമ്പർ 2 ഓഫ് എലമെന്റ് b ആയിരിക്കും ലോക്കൽ എഡ്ജ് നമ്പർ വിദ്യാർത്ഥി 0 ലോക്കൽ എഡ്ജ് നമ്പർ വിദ്യാർത്ഥി 2 2 ശരിയാണ് വിദ്യാർത്ഥി എന്താണ് ആ പ്ലസ് സൈൻ ആ രണ്ട് Tക്കും അതായത് ഈ രണ്ട് ഫങ്ക്ഷൻസ് ഉം tനും എഡ്ജിൽ വ്യത്യസ്ത സൈൻ എങ്ങനെ വന്നു എന്നതാണ് ചോദ്യം അത് വലിയ പ്രശ്നം അല്ല സിസ്റ്റം ഓഫ് ഇക്വേഷൻ സിൽ എനിക്ക് മൈനസ് സൈൻ കിട്ടും ഒരു ഇക്വേഷൻ ൽ എനിക്ക് എടുക്കാൻ കഴിയും എടുത്ത് വേറൊരു ഇക്വേഷൻ ഉം ഇത് ഒരു എളുപ്പവഴിയാണ് വിദ്യാർത്ഥി സർ നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് ലോക്കൽ അല്ലെ അതെ കാരണം എനിക്ക് ടെസ്റ്റിംഗ് ഫങ്ക്ഷൻ രണ്ട് കാര്യങ്ങളുടെ സംയോജിത തുക ആയിട്ടാണ് ചെയ്യേണ്ടത് അവിടെ എനിക്ക് എങ്ങനെ എങ്കിലും ലോക്കൽ പരാമർശിക്കണം ഇത് ചെയ്യാനുള്ള കാരണം അവിടെ 5 ഗ്ലോബൽ എഡ്ജസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് കൊണ്ട് അവിടെ 5 വേരിയബിൾസ് ഉണ്ടായിരിക്കും അത് കൊണ്ട് എനിക്ക് 5 ഇക്വേഷൻസ് കിട്ടണം ഇതാണ് ഇടതുവശം വലതുവശം കോണ്ടർ ഇന്റെഗ്രൽ ആണ് ഇനി നമുക്ക് ലേക്ക് തിരിച്ചു പോവാം നമുക്ക് 2 എടുക്കാം എലമെന്റ് ബി യിൽ എഡ്ജ് നമ്പർ 2 ഗ്ലോബൽ എഡ്ജ് നമ്പർ 5 നോട് യോജിക്കുന്നു ഇല്ല ഞാനത് എതിർ നോഡ് നമ്പർ കൊണ്ട് പേരിടുന്നില്ല അവിടെ ഒരുപാട് കൺവെൻഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏതു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഇവിടെ ഞാൻ തിരഞ്ഞെടുത്തത് സ്റ്റാർട്ടിങ് ലോക്കൽ എഡ്ജ് നമ്പർ നോട് യോജിക്കുന്നതാണ് നേരത്തെ എടുത്ത തിനെക്കാളും കുറച്ചു വ്യത്യസ്തമാണിത് കാരണം ഓരോ റഫറൻസ് ബുക്കിലും വ്യത്യസ്ത കൺവെൻഷൻ ഉണ്ട് അതുകൊണ്ട് ഇതിനൊന്നും ഒരു യൂണിവേഴ്സൽ അഗ്രിമെന്റ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്